ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ കാന്തികത്തെക്കുറിച്ചു ചർച്ച ചയ്തു ആരംഭിക്കാം നമുക്ക് ഫോർവേഡ് കൺവെർട്ടർ ട്രാൻസ്ഫോർമറും തുടർന്ന് ഇൻഡക്റ്ററിനുള്ള കാന്തികതയും രൂപകല്പന ചെയ്യേണ്ടതുണ്ട് ഈ രണ്ട് പ്രധാന വിഷയങ്ങൾ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമറിനും ഇൻഡക്ടറിനും എങ്ങനെ കോർ തിരഞ്ഞെടുക്കുന്നു എന്ന് നോക്കാം കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പ് വയറിന്റെ കനം എത്ര എന്നും ഫോർവേഡ് കൺവെർട്ടർ ട്രാൻസ്ഫോർമറിനും ഇൻഡക്ടറിനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക ഇതിനായി നമ്മൾ ഏരിയ പ്രൊഡക്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്ന ഒരു സമീപനം ഉപയോഗിക്കും മാഗ്നറ്റിക് എന്നത് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയമാണ് കാരണം നമുക്ക് അതിന്റെ ഉള്ളിലുള്ളത് കാണാൻ സാധിക്കില്ല പക്ഷേ കുറച്ച് ലളിതമായ നിയമങ്ങളുണ്ട് നമ്മൾ അവ പിന്തുടരുകയാണെങ്കിൽ പൊതുവെ അത് തെറ്റായി പോകില്ല നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ഇത് 50 ഹെർട്സ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലോ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമറാണ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെറൈറ്റ് കോറുകൾ പോലെയുള്ള ഉയർന്ന ഫ്രീക്വൻസി കോർ ഉള്ള സ്വിച്ച് മോഡ് പവർ സെമി കണ്ടക്ടർ ആപ്ലിക്കേഷനുകളിൽ ഇത് ഉപയോഗിക്കില്ല ഫിസിക്കൽ മാഗ്നറ്റിക്സ് രൂപകൽപന ചെയ്യുകയും നമ്മൾ നോക്കിയിരുന്ന കറന്റിലെ വോൾട്ടേജുകളുടെ വൈദ്യുത പാരാമീറ്ററുകളുമായി അതിനെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ട്രാൻസ്ഫോർമറിന്റെയും ഇൻഡക്ടറിന്റെയും രൂപകൽപ്പനയിലെ പ്രധാന പ്രശ്നം അതാണ് ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ ചെയ്യുന്നത് എന്റെ പക്കൽ ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് ഇത് ലോ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമറാണ് ഇത് സ്റ്റാക്ക് ലാമിനേഷനുകൾ ചേർന്നതാണെന്ന് നിങ്ങൾക്ക് കാണാം ഇവ ഒരുമിച്ച് അടുക്കിയിരിക്കുന്ന നേർത്ത ലാമിനേഷനുകളാണ് തുടർന്ന് എയർ പോക്കറ്റുകൾ പുറത്തുവരാതിരിക്കാൻ വാർണിഷ് പ്രയോഗിക്കുകയും ചെയ്തു ഈ ലാമിനേഷനുകൾ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അവ സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവയെ കോൾഡ് റോൾഡ് സിലിക്കൺ സ്റ്റീൽ എന്ന് വിളിക്കുന്നു അവയ്ക്ക് ഒരു പോയിന്റ് ടെസ്ലയുടെ പരമാവധി ഫ്ലക്സ് സാന്ദ്രത ശേഷിയുണ്ട് നിങ്ങൾ കണ്ടിരിക്കാനിടയുള്ള സാധാരണ ട്രാൻസ്ഫോർമറുകൾ ഇവയാണ് എന്നാൽ ഇവ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനുകൾക്കോ അല്ലെങ്കിൽ 50 ഹെർട്സ് ആപ്ലിക്കേഷനുകൾക്കോ വേണ്ടിയുള്ളതാണ് ഇവിടെയാണ് വൈൻഡിംഗ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഒരു കടലാസ് പേപ്പർ ആണ് പ്രൈമറിയും സെക്കൻഡറിയും ചെമ്പുപയോഗിച്ചാണ് ചുറ്റിയിക്കുന്നത് പിന്നീട് അവ പുറത്തുവരുകയും തുടർന്ന് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു ഒരു സാധാരണ 50 ഹെർട്സ് ട്രാൻസ്ഫോർമർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ആശയം നൽകാനുള്ള ലോ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമറാണ് എന്നാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആപ്ലിക്കേഷനുകൾക്കായി ഈ മെറ്റീരിയൽ ഉപയോഗിക്കില്ല പകരം ഉയർന്ന ഫ്രീക്വൻസി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ഫെറൈറ്റ് കോർ എന്ന് അതിനെ വിളിക്കുന്നു ഫെറൈറ്റ് കോറുകളുടെ ഒരു ഉദാഹരണം കൂടി എനിക്കിവിടെയുണ്ട് ഇതൊരു ഫെറൈറ്റ് കോർ ആണെന്ന് നിങ്ങൾ കാണുന്നു ഇതൊരു റൌണ്ട് ടോപ്പോളജി ഫെറൈറ്റ് കോർ ആണ് ഇതിനെ ഹോട്ട് കോർ എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ ഇത് ലബോറട്ടറിയിലെ വിദ്യാർത്ഥിയാണ് നിർമ്മിച്ചത് നിങ്ങൾ ഇവിടെ നോക്കൂ ഇതിനു മുൻഭാഗം ഉണ്ട് ആദ്യത്തേതിൽ ചെമ്പ് ചുരുളുകളുടെ ചുറ്റുകൾ ഉണ്ട് വാസ്തവത്തിൽ തകർന്ന ഫെറൈറ്റിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും ഫെറൈറ്റ് കോർ തകർന്നതായി ഇവിടെ കാണാം അതിനുള്ളിൽ ഇത് വൃത്താകൃതിയിലുള്ള ബോബിൻ ആണ് ബോബിനിനുള്ളിൽ നിങ്ങൾക്ക് പ്രൈമറി വൈൻഡിംഗുകളും സെക്കൻഡറി വൈൻഡിംഗുകളും ഉണ്ട് ഇത്തരത്തിലുള്ള കോർ മെറ്റീരിയലുകൾ വേണം ഉപയോഗിക്കാൻ സ്വിച്ചഡ് മോഡ് പവർ കൺവെർട്ടറിലോ DC DC കൺവെർട്ടറിലോ വളരെ സാധാരണമായി ഉപയോഗിക്കുന്നത് E E തരം കോർ ആണ് ഈ E E തരം കോർ ഒരു ഗോളത്തിലാണ് വരുന്നത് രണ്ട് E E കൾ അത്തരത്തിൽ ഒരുമിച്ചു ചേരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് E E കോർ രൂപപ്പെടുത്തുന്നു ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണം ഉള്ളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ജനൽ ഏരിയ ആണ് ഒരു ദീർഘചതുരം അല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച രണ്ടും വിൻഡോ ഏരിയയാണ് എല്ലാ വൈൻഡിംഗുകളും ഈ വിൻഡോ ഏരിയയിൽ ഘടിപ്പിക്കേണ്ടിവരും ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ നീക്കം ചെയ്താൽ പിന്നെ ഈ ഭാഗം നിങ്ങൾ കാണുന്നത് കോർ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നിങ്ങൾ ഇവിടെ വൈൻഡിംഗ് ഇടുകയാണെങ്കിൽ ഫ്ലക്സ് ഈ കോർ ക്രോസ് സെക്ഷനിലേക്ക് ഓർത്തോഗണായി ഒഴുകും ഇതാണ് കോർ ക്രോസ് സെക്ഷൻ ഏരിയ ഇത് രണ്ട് ഹാഫ് കോർ ക്രോസ് സെക്ഷനുകളായി വിഭജിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ഇതൊരു ബോബിൻ ആണ് ബോബിനിൽ വിൻഡിങ്സ് വളച്ചുവച്ചിട്ടുണ്ട് വിൻഡിംഗിന് ശേഷം ബോബിനുകൾ കാമ്പിലേക്ക് തിരുകുകയും അങ്ങനെ ട്രാൻസ്ഫോർമർ രൂപപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഈ ഭാഗം ഞാൻ പറഞ്ഞിരുന്ന വിൻഡോ ഏരിയയാണ് ഒപ്പം വൈൻഡിംഗുകൾ ദൃശ്യമാകും ഞാൻ ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ വിൻഡോ ഏരിയയിൽ ചെമ്പിന്റെ സർക്കിളുകൾ നിങ്ങൾക്ക് കാണാം കൂടാതെ വയറുകളുടെ കനം അത് കൈകാര്യം ചെയ്യേണ്ട വൈദ്യുതിയുടെ അളവും വൈദ്യുതധാരയും അനുസരിച്ചായിരിക്കും ഞാൻ വിൻഡോ ഏരിയ എന്ന് അർത്ഥമാക്കുമ്പോൾ അത് ഈ ഏരിയയാണെന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് കോർ ക്രോസ് സെക്ഷൻ ഏരിയയാണെന്നും നിങ്ങൾ മനസിലാക്കുക ഈ ദൃശ്യ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ നോട്ട്പാഡിലേക്ക് തിരികെ പോകാം ഡിസൈനിനായുള്ള സമവാക്യങ്ങൾ എഴുതാൻ തുടങ്ങാം ആദ്യം ട്രാൻസ്ഫോർമറിന്റെ ഡിസൈൻ നോക്കി ആരംഭിക്കാം പിന്നീട് ഇൻഡക്റ്റർ ഡിസൈനും ട്രാൻസ്ഫോർമർ ഡിസൈനിൽ ഇലക്ട്രിക്കൽ പെർസെപ്റ്റീവിൽ നിന്ന് ഞാൻ പറയും നമ്മളുടെ പക്കൽ ഇനിപ്പറയുന്ന ഡാറ്റയുണ്ട് പ്രാഥമിക വോൾട്ടേജ് ദ്വിതീയ വോൾട്ടേജ് ടേൺ റേഷ്യോ പ്രൈമറിയിലൂടെയും സെക്കന്ഡറിയിലൂടെയും ഒഴുക്കുന്ന കറന്റുകളും ട്രാൻസ്ഫോമറിന്റെ ശക്തിയും കഴിവും ഇലക്ട്രിക്കൽ വശത്ത് ഇവയാണ് നമുക്കുള്ളത് ഇപ്പോൾ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വശത്ത് ഒരു കോർ ഉണ്ട് നിങ്ങൾ കോർ ഡാറ്റ ഷീറ്റുകൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന പാരാമീറ്ററുകൾ കാണാം ഒന്നിനെ കോർ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വിളിക്കുന്നു അതിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് കോർ ക്രോസ് സെക്ഷൻ ഏരിയ കൂടാതെ ഡാറ്റ ഷീറ്റുകളിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന പാരാമീറ്റർ ഉണ്ട് ഇതിനെ വിൻഡോ ഏരിയ എന്നും വിളിക്കുന്നു ഫിസിക്കൽ വശത്ത് നമുക്ക് കോർ ക്രോസ് സെക്ഷൻ ഏരിയയും ഇലക്ട്രിക്കൽ വശത്ത് വിൻഡോ ഏരിയയും ഉണ്ട് നമുക്ക് അറിയാവുന്ന വൈദ്യുതധാരകളിൽ നിന്നുള്ള വോൾട്ടേജുകൾ ഉണ്ട് ഇവ രണ്ടും എങ്ങനെ ബന്ധിപ്പിച്ച് ഒരു കോറിന്റെ തിരഞ്ഞെടുക്കൽ നടത്താം ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാൽ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കോറുകൾ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി ഈ കോർ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണെന്നും ഈ വിൻഡോ ഏരിയ എന്താണെന്നും നിങ്ങൾക്ക് ഒരു ആശയം ലഭിക്കും ഏത് കോറിലും ഈ രണ്ട് മേഖലകൾ തിരിച്ചറിയാനും കോറുകൾ തിരഞ്ഞെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ഇനി വോൾട്ടേജും കോർ ക്രോസ് സെക്ഷൻ ഏരിയ യുമായി ബന്ധിപ്പിച്ച് നമുക്ക് ആരംഭിക്കാം വോൾട്ടേജും Ac യും ബന്ധമുണ്ട് അതിനാൽ കോർ ക്രോസ് സെക്ഷൻ ഏരിയ നിങ്ങൾക്ക് വൈൻഡിംഗുകളുടെ വോൾട്ടേജ് താങ്ങാനുള്ള ശേഷിയെക്കുറിച്ച് ഒരു ആശയം നൽകും കൂടാതെ കറന്റ് വഹിക്കാനുള്ള കഴിവ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ വൈൻഡിംഗിനായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ ഗേജിന്റെ കനം അനുസരിച്ചാണ് അവ വിൻഡോ ഏരിയക്കുള്ളിൽ ഉൾക്കൊള്ളണം അങ്ങനെ കറന്റും വിൻഡോ ഏരിയയും ബന്ധപ്പെട്ടിരിക്കും ഈ രണ്ട് ബന്ധങ്ങളും സ്ഥാപിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമറിനും അതുപോലെ ഇൻഡക്റ്ററിനും വേണ്ടിയുള്ള രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഫാരഡെസ് നിയമത്തിൽ Faradays law നിന്ന് നമുക്ക് അറിയാം V L didt Ndψdt അതിനാൽ വൈദ്യുത പാരാമീറ്റർ കാന്തിക പദാർത്ഥത്തിനുള്ളിലെ പാരാമീറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം അത് ഫ്ലക്സ് ആണ് അവ രണ്ടും എടുക്കുമ്പോൾ വോൾട്ടേജ് NAcdBdt മായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ B എന്നത് ഫ്ലക്സ് സാന്ദ്രതയാണ് ഫ്ലക്സ് സാന്ദ്രത B യഥാർത്ഥത്തിൽ കോർ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഫ്ലക്സ് ആണ് അതിനാൽ ഇവ അടിസ്ഥാനപരമായ ബന്ധങ്ങളാണ് ഇത് തുടരുമ്പോൾ ഞാൻ അവ അവലോകനം ചെയ്യാം ഇത് ഒരു പ്രധാന ബന്ധമാണ് ഇത് നമ്മൾ ഫോർവേഡ് ട്രാൻസ്ഫോർമറിൽ പരിഗണിക്കും ഫോർവേഡ് ട്രാൻസ്ഫോർമറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് പ്രാഥമികം അത് Vin മായി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ദ്വിതീയവും നിങ്ങൾക്ക് മൂന്നാമത്തെ വൈൻഡിംഗും ഉണ്ട് അതിർത്തി വിൻഡിങ് ആണെന്നിരിക്കട്ടെ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം കാരണം അതിൽ ഏതാണ്ട് നിസ്സാരമായ ശക്തി അടങ്ങിയിരിക്കുന്നു ഈ വിൻഡിംഗിന് Np എണ്ണം തിരിവുകളുണ്ടെന്നും ഇതിന് Ns എണ്ണം തിരിവുകളുണ്ടെന്നും നമുക്ക് പറയാം ഈ വിൻഡിംഗിലുടനീളം ട്രാൻസിസ്റ്റർ രൂപപ്പെടുമ്പോൾ നിങ്ങൾ Vin വോൾട്ടേജ് കാണും ഇപ്പോൾ നമ്മൾ Vin Np Ac dBdt എന്ന് പ്രയോഗിക്കും അത് Np Ac ക്ക് തുല്യമാണ് കൂടാതെ ഫ്ലക്സ് സംക്രമണങ്ങൾ രേഖീയ സ്വഭാവമുള്ളതിനാൽ എനിക്ക് സാമാന്യത നഷ്ടപ്പെടാതെ അത് ∆B∆T ആണെന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ഫോർവേഡ് കൺവെർട്ടർ നോക്കുകയാണെങ്കിൽ ഫ്ലക്സ് ഫയൽ വേവ് ഫോം കറന്റിന് സമാനമായ വേവ് ആകൃതി എടുക്കുന്നത് കാണാം അതിനാൽ ഫ്ലക്സ് 0 മുതൽ φm വരെ പോയി ഫ്ലക്സ് ഒന്നുകിൽ ഒരു രേഖീയ രീതിയിലോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഡീകേയ് വഴിയോ പോയി അത് നഷ്ടപ്രവാഹമാണോ എന്നതിനെ ആശ്രയിച്ച് വീണ്ടും 0 ലേക്ക് പോയി കുറച്ച് സമയത്തിന് ശേഷം അടുത്ത ചക്രത്തിൽ ഇത് വീണ്ടും ഈ രീതിയിലേക്ക് പോകാൻ തുടങ്ങി 0 മുതൽ φm വരെ ഒരു സ്വിംഗ് ഉണ്ട് നിങ്ങൾ B യുടെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ 0 മുതൽ Bm വരെയുള്ള ഒരു സ്വിംഗ് ഉണ്ട് Bm ഒന്നുമല്ല φm Ac ആണ് ഇതിനകം Ac അവിടെ ഇട്ടിട്ടുണ്ട് ഇത് Np Ac ആണ് ഇതിന് പരമാവധി Bm സ്വിംഗ് ചെയ്യാൻ കഴിയും ഏത് സമയത്താണ് സമയ കാലയളവ് dTs ആയതെന്നും ഫോർവേഡ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ കൃത്യസമയത്ത് സമയമുണ്ടെന്നും നമുക്ക് അറിയാം അത് ഡ്യൂട്ടി സൈക്കിളിന്റെ 50 ശതമാനത്തിനപ്പുറം പോകാനാവില്ല മൊത്തം കാലയളവിന്റെ 50 ശതമാനം ആണ് അതിനാൽ D എന്നത് പരമാവധി 0 5 ആണ് ഏറ്റവും മോശം അവസ്ഥയിൽ ഇത് Ts2 ആയിരിക്കാം അതിനാൽ Vin 2Np Ac Bmfs ആയിരിക്കും ഞാൻ ഇത് ഇപ്പോൾ Ac ആക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഇത് വോൾട്ടേജിനെ മറ്റ് പല ഫിസിക്കൽ പാരാമീറ്ററുകളുമായി ബന്ധപ്പെടുത്തും അതിനാൽ ഇത് ഒരു വോൾട്ടേജിൽ ടേൺ കോർ ക്രോസ് സെക്ഷൻ ഏരിയയുടെ എണ്ണവും കാന്തിക വസ്തുക്കളുടെ Bm മായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഫെറൈറ്റുകളുടെ കാര്യത്തിൽ Bm ഏദേശം 0 2 ടെസ്ല ആയിരിക്കും ഈ ഫെററൈറ്റുകളുടെ പൂരിത ഫ്ലക്സ് സാന്ദ്രത പോയിന്റ് മൂന്ന് ടെസ്ലയാണ് അതിനാൽ ഒരു പോയിന്റിൽ രണ്ട് ടെസ്ല അനുവദിക്കുക സ്വിച്ചിംഗ് ഫ്രീക്വൻസി 10kHz ഉം 20kHz ഉം ആയിരിക്കും ഇനി നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വിൻഡോ ഏരിയയുമായി കറന്റ് ബന്ധപ്പെടുത്തണം ഇപ്പോൾ വിൻഡിംഗുകൾ വിൻഡോ ഏരിയയിൽ ഘടിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി E E കോറിന്റെ ക്രോസ്സ് സെക്ഷൻ വരയ്ക്കാൻ പോകുകയാണ് ഈ ഫാഷനിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് E E ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വിശദീകരിയ്ക്കാൻ സാധിക്കും രണ്ട് E വിഭാഗങ്ങൾ കൂടിച്ചേർന്ന് കോർ ഉണ്ടായി നിങ്ങൾ കാണുന്ന ഈ രണ്ട് ദീർഘചതുരങ്ങളും അല്ലെങ്കിൽ വിൻഡോ ഏരിയ ചതുരാകൃതിയെയും വിൻഡോ ഏരിയ എന്ന് വിളിക്കുന്നു ഒരു ബോബിൻ ഇവിടെ നിങ്ങൾക്ക് കാണാം വിൻഡോ ഏരിയയുടെ ഒരു ഭാഗം ബോബിനിലേക്ക് പോകുന്നു വെവ്സിന്റെ ഒരു ഭാഗം കൂടി ബോബിനിലേക്ക് പോകുന്നുവെന്നും തുടർന്ന് ഈ രീതിയിൽ വൈൻഡിംഗുകൾ സ്ഥാപിക്കുന്നുവെന്നും നമുക്ക് പറയാം നിങ്ങൾ ഇരുവശത്തുനിന്നും ബോബിൻ ചിത്രത്തിൽ വരുന്നത് നിങ്ങൾ കാണും ഈ രീതിയിൽ ഞാൻ ബോബിനെ വട്ടമിടും നിങ്ങൾ 2 കണ്ടക്ടറുകൾ വയ്ക്കുമ്പോൾ ഇവിടെ വിടവുകൾ ഉണ്ടാകുന്നത് കാണാം ഇതും ചില വിസ്തീർണങ്ങളുടെ നഷ്ടമാണ് നിങ്ങൾക്ക് ഒന്നിലധികം വൈൻഡിംഗുകളുണ്ടെങ്കിൽ പ്രൈമറി സെക്കണ്ടറി ഒന്ന് സെക്കൻഡറി രണ്ട് ഉണ്ടെങ്കിൽ ഓരോ ലെയറിലും ഇൻസുലേഷൻ ലെയർ വേർതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സെക്കൻഡറിയും ഉണ്ടാകും ഒന്നിലധികം സെക്കൻഡറികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസുലേഷൻ പാളി കൂടി കാണും ഇത് ലഭ്യമായ ജാലക വിസ്തീർണ്ണം വരെ ഏറ്റെടുക്കും അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ വിൻഡോ ഏരിയയും നിങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് ഒപ്പം Kw എന്ന ഘടകമുണ്ട് ഇപ്പോൾ Kw 1 ൽ താഴെയാണ് Kw Aw എന്നത് ലഭ്യമായ വിൻഡോ ഏരിയയാണ് ഇത് Kw നേക്കാൾ വളരെ കുറവാണ് അതിനാൽ Kw നെ വിൻഡോ ഫാക്ടർ എന്ന് വിളിക്കുന്നു ഈ വിൻഡോ ഫാക്ടർ ട്രാൻസ്ഫോർമർ ആപ്ലിക്കേഷൻസിൽ വ്യത്യാസപ്പെടാം പക്ഷേ ഇത് പൊതുവായി അനുഭവത്തിൽ കൂടുതലായി മനസിലാക്കാം ട്രാൻസ്ഫോർമറുകൾക്ക് Kw0 4 എന്നും ഇത് രണ്ട് വൈൻഡിംഗ് അല്ലെങ്കിൽ മൂന്ന് വൈൻഡിംഗ് ട്രാൻസ്ഫോർമറുകൾക്ക് ഇത് ഇൻഡക്ടറുകൾക്ക് 0 6 എന്നും എടുക്കാം ഇൻഡക്ടറുകൾക്ക് സാധാരണയായി സിംഗിൾ വൈൻഡിംഗ് ആണ് ഉള്ളത് വൈൻഡിംഗുകൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കുമിടയിൽ ഇൻസുലേഷൻ ഇല്ല അതിനാൽ നിങ്ങൾക്ക് വിൻഡോ ഏരിയ കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഒന്നിലധികം വൈൻഡിംഗുകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം Kw വിൻഡോ ഫാക്ടർ 0 2 വരെ താഴ്ന്നേക്കാം അതിനാൽ നിങ്ങൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് അതിനാൽ Kw Aw എന്നത് പ്രൈമറി വയറിന്റെ വയർ ക്രോസ് സെക്ഷൻ ഏരിയയുള്ള Np തിരിവുകളുടെ എണ്ണവും സെക്കൻഡറി വയറിന്റെ വയർ ക്രോസ് സെക്ഷനോടുകൂടിയ Ns തിരിവുകളുടെ എണ്ണവും ഒപ്പം ഡീമാഗ്നെറ്റൈസിംഗ് വിൻഡിംഗിന്റെ Nd തിരിവുകളുടെ എണ്ണവും കൂട്ടുന്നതിനേക്കാൾ വലുതായിരിക്കണം ഒരു ചെമ്പ് കണ്ടക്ടർ ഉള്ളപ്പോൾ വയർ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് വയർ ക്രോസ് സെക്ഷൻ ഏരിയ Aw ഇത് പ്രൈമറി വയർ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് Awp എന്നും സെക്കൻഡറി വയർ ക്രോസ് സെക്ഷൻ ഏരിയക്ക് Aws എന്നും വയറുകൾക്ക് Awd എന്നുമായിരിക്കും നമുക്ക് ചുറ്റും ഇനാമൽ ചെയ്യാം നിങ്ങൾ സ്പർശിക്കുന്ന വിൻഡിംഗുകൾ അത് ഇൻസുലേറ്റ് ചെയ്യുന്നു അത് ഷോർട്ട് സർക്യൂട്ട് ആകരുത് അതിനാൽ ഇത് ഇനാമൽ ചെയ്യുകയും ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുവഴി മുകളിൽ പറഞ്ഞതും സാധ്യമാണ് അതിനാൽ വിൻഡോ ഏരിയ ഈ ബന്ധം ഇപ്പോൾ പ്രധാനമാണ് ഉദാഹരണത്തിന് ഓരോ വൈൻഡിംഗുകളിലൂടെയും ഒഴുകേണ്ട വൈദ്യുതധാരയുടെ rms മൂല്യം നമുക്കറിയാം അതിനാൽ പ്രൈമറിയിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ rms മൂല്യം ദ്വിതീയ ഒഴുകുന്ന വൈദ്യുതധാരയുടെ വൈദ്യുത പെർസെപ്റ്റീവ് rms മൂല്യം ഡീമാഗ്നെറ്റൈസിംഗ് വിൻഡിംഗിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ rms മൂല്യം എന്നിവ നമുക്കറിയാം അതിനാൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റൊരു പുതിയ പദമാണ് J അത് വൈദ്യുതി സാന്ദ്രതയെ കാണിക്കുന്നു കോപ്പർ അലുമിനിയം പോലെയുള്ള വ്യത്യസ്ത വസ്തുക്കളിൽ പ്രത്യേക വൈദ്യുതി സാന്ദ്രത ഉണ്ട് അത് ചില അന്തർദേശീയ നിലവാരമുള്ള സ്റ്റാൻഡേർഡായി കണക്കാക്കുന്നു അതിന്റെ യൂണിറ്റ് amps per mm square ആണ് സാധാരണയായി സ്റ്റോക്കിംഗ് മൂല്യം 3Amm2 ആയി എടുക്കാം നിങ്ങൾക്ക് കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയുടെ 3Amm2 അനുവദിക്കാം ഇത് SI യൂണിറ്റുകളിൽ ഒരു മീറ്ററിന് 3 x 106 amps ആയി പ്രവർത്തിക്കും ഇതാണ് വൈദ്യുത സാന്ദ്രത നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തെ ആശ്രയിച്ച് വ്യവസായത്തിലെ ആളുകൾക്ക് ഒരു മില്ലിമീറ്റർ ചതുരശ്ര amp യിൽ ആരംഭിക്കാൻ കോപ്പർ കണ്ടക്ടർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാന്ദ്രത എന്നത് ഒരു മില്ലീമീറ്ററിന് 6 ആംപിയർ വേണം Irms മൂല്യത്തെ J കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് വയറിന്റെ ക്രോസ് സെക്ഷന്റെ വിസ്തീർണ്ണം ലഭിക്കും നിങ്ങൾ പോയി ഷീറ്റ് നോക്കി വയർ ഗേജ് വലുപ്പം പരിശോധിക്കുക വയർ ഡാറ്റ ഷീറ്റിലോ വയർ ടേബിളിലോ ഇതിനെ സ്റ്റാൻഡേർഡ് വയർ ഗേജ് വലുപ്പം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി സ്റ്റാൻഡേർഡ് വയർ ഗേജ് ടേബിൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് rms ന്റെ മൂല്യം അറിയാം ആംപിയർ എം എം സ്ക്വയർ ampere mm square0 ലോ ആംപിയർ മീറ്റർ സ്ക്വയർ ഉള്ള വൈദ്യുത സാന്ദ്രത എന്തായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ചില വയർ ക്രോസ് സെക്ഷൻ ഏരിയ ആവശ്യകത കണക്കാക്കും നിങ്ങൾ വയർ ടേബിൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ടേബിളിലേക്ക് പോയി കണക്കാക്കിയതിനേക്കാൾ വലിയ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ആ വയർ ഗേജ് തിരഞ്ഞെടുത്ത് അതിനെ ആശ്രയിച്ച് ഏത് വൈൻഡിംഗിനാണോ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിനു Awp അല്ലെങ്കിൽ Aws അല്ലെങ്കിൽ Awd ആയി സജ്ജമാക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോമുകളിൽ ഉള്ളതുപോലെ ഇടുക ഫോർവേഡ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഉയർന്ന മൂല്യം എടുക്കും ഈ രീതിയിൽ ഒഴുകുന്ന വൈദ്യുതി നമുക്കുണ്ട് ഓൺ ആയി ഇരിക്കുമ്പോൾ നിങ്ങൾ തത്തുല്യമായ കറന്റ് സ്ക്വയർ കറന്റായി എടുത്ത് അതിനെ തുല്യമാക്കാൻ പോകുന്നു ഈ ഏരിയ ഈ ഏരിയയ്ക്ക് തുല്യമാണ് ഇത് നമുക്ക് Im എന്ന് എടുക്കാം Irms മൂല്യം ഡ്യൂട്ടി സൈക്കിളിന്റെ റൂട്ടിലേക്ക് ഉയർന്ന മൂല്യമായി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് IrmsIrms Im x ഫോം ഫാക്ടറും ചതുര തരംഗ രൂപത്തിന്റെ കാര്യത്തിൽ ഫോം ഫാക്ടറും ഒന്നാണെന്ന് പറയാം ക്രോസ് സെക്ഷൻ അനുസരിച്ച് Im ആയിരിക്കും ക്ഷമിക്കണം Im IrmsKf എന്ന രീതിയിൽ ഞാൻ അത് ചെയ്യണമായിരുന്നു അതിനാൽ Im വയർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഇത് പ്രൈമറിക്ക് വേണ്ടിയാണെങ്കിൽ Im ആയിരിക്കും ഇത് സെക്കൻഡറിക്ക് വേണ്ടിയാണെങ്കിൽ അത് Kf J എന്നിങ്ങനെയും NpImp Kf J NsIms Kf J Kw Aw ഇപ്പോൾ അത് നിലവിലെ സാന്ദ്രതയും തിരിവുകളുടെ എണ്ണവുമായ Kf J എന്ന നിലവിലെ പാരാമീറ്ററുമായി Aw നെ ബന്ധപ്പെടുത്തുന്ന മറ്റൊരു ബന്ധം ആണ് ഇപ്പോൾ ഈ രണ്ട് ബന്ധങ്ങളും ഒന്ന് Aw ഉം മറ്റൊന്ന് Ac കോർ ക്രോസ് സെക്ഷൻ ഏരിയയുമായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ബന്ധമാണ് ഞാൻ ഉൽപ്പന്നം Ac എന്നത് Aw എന്നതിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ Ac Aw നിങ്ങൾക്ക് ഏരിയ പ്രോഡക്റ്റ് Ap എന്ന ഉൽപ്പന്നം നൽകും ഇതാണ് m4 ഈ ഉൽപ്പന്നം ഈ ഏരിയ ഉൽപ്പന്നമാണ് കോർ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാരാമീറ്ററാണ് നിങ്ങൾ കോർ ഡാറ്റ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഏരിയ ഉൽപ്പന്നത്തിന് എപ്പോഴെങ്കിലും ഒരു പാരാമീറ്റർ നൽകും അല്ലെങ്കിൽ Ac Aw എന്നിവ നൽകിയാൽ നിങ്ങൾ ഗുണിച്ച് ഏരിയ ഉൽപ്പന്നം കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് ഏരിയ ഉൽപ്പന്നം ലിസ്റ്റ് ചെയ്യാനും കണക്കാക്കിയ ഏരിയ ഉൽപ്പന്നം അടുത്തതിനേക്കാൾ ഉയർന്ന ഏരിയ ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനും കഴിയും ഓരോ ട്രാൻസ്ഫോർമർ ടോപ്പോളജികൾക്കും ഫോർവേഡ് കൺവെർട്ടറിനും ആ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിക്കാം ഇത് ഈ രൂപത്തിൽ നൽകിയിരിക്കുന്നു Po എന്നത് ഔട്ട്പുട്ട് പവർ ആണ് Ap Po11η√ 2KwJfsBm കാര്യക്ഷമത ഏകദേശം എൺപത് ശതമാനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഫോർവേഡ് കൺവെർട്ടറിനുള്ള ഏരിയ ഉൽപ്പന്നമാണിത് സ്പെക്കിൽ നിന്ന് Po ലഭ്യമാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് ഡിസൈൻ കാര്യക്ഷമതയിലേക്കുള്ള ഒരു പ്രത്യേക ഇൻപുട്ടാണ് ഇത് ഏകദേശം 0 8 ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം 80 ശതമാനം Kw നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിംഗ് ഫിഗർ ഉണ്ട് അത് 0 4 J ൽ ആരംഭിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു mm സ്ക്വയറിന് 3 ആംപിയർ അല്ലെങ്കിൽ 3 മുതൽ 10 വരെ 6 ആംപിയർ പെർമീറ്റർ സ്ക്വയർ വക്കുന്നു fs എന്നത് സ്വിച്ചിംഗ് ഫ്രീക്വൻസിയാണ് ഇതാണ് വീണ്ടും ഡിസൈൻ സ്പെക് ബിഎം ഫെറൈറ്റിനായി നിങ്ങൾക്ക് പോയിന്റ് രണ്ട് ടെസ്ലയിൽ ട്രാൻസ്ഫോർമർ കോർ രൂപകൽപ്പന ചെയ്യാൻ കഴിയും മിക്ക ഫെറിറ്റുകളിലും സാച്ചുറേഷൻ ഫ്ലക്സ് സാന്ദ്രത പോയിന്റ് മൂന്ന് ടെസ്ലയാണെന്നും നിങ്ങൾക്ക് സുരക്ഷിതമായി 0 2 ടെസ്ലയിൽ രൂപകൽപ്പന ചെയ്യാമെന്നും ഓർക്കുക പക്ഷേ പൌഡർ ഡയാൻ അമോർഫസ് പോലുള്ള ഉയർന്ന ഫ്രീക്വൻസി കോറുകൾ ഉണ്ട് മെറ്റ്ലാസ് എന്ന ബ്രാൻഡ് നാമത്തിൽ ഉള്ള കോറുകൾക്ക് ഏകദേശം 1 6 സാച്ചുറേഷൻ ഫ്ലക്സ് സാന്ദ്രതയുണ്ട് നിങ്ങൾക്ക് ഇത് 1 5 ടെസ്ലയിൽ സുരക്ഷിതമായി രൂപകൽപ്പന ചെയ്യാൻ കഴിയും അത് നിങ്ങൾക്ക് ചെറിയ വലിപ്പത്തിലുള്ള കോർ നൽകും ഒരു പ്രത്യേക ആപ്ലിക്കേഷനായി ഈ മൂല്യം പ്ലഗ് ചെയ്താൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏരിയ പ്രോഡക്റ്റ് കണ്ടെത്താനാകും ഡാറ്റ ഷീറ്റിലേക്ക് പോകുന്ന ഏരിയ പ്രോഡക്റ്റ് കണ്ടെത്തുക കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ഏരിയ പ്രോഡക്റ്റ് ഉള്ള ആ കോർ എടുക്കുക അത് നിങ്ങൾക്ക് കോറിന്റെ വലുപ്പം നൽകും ട്രാൻസ്ഫോർമറിനായുള്ള ഡിസൈൻ പ്രക്രിയ ഘട്ടം ഘട്ടമായി നമുക്ക് ഇപ്പോൾ പട്ടികപ്പെടുത്താം ട്രാൻസ്ഫോർമറിനായുള്ള ഡിസൈൻ ഘട്ടങ്ങൾ നമുക്ക് ചുരുക്കി പട്ടികപ്പെടുത്താം ആദ്യം Po കണക്കുകൂട്ടൽ Po എസ്റ്റിമേഷൻ എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഇപ്പോൾ നമുക്ക് Vo Io എന്നിവ അറിയാം ഇവ സ്പെക്കിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് Po മൂല്യം വിലയിരുത്താം അടുത്തതായി നിങ്ങൾക്ക് Po മൂല്യം അറിയാനായാൽ ഏരിയ പ്രോഡക്റ്റ് ആയ Ap നെ നിങ്ങൾക്ക് വിലയിരുത്താം ഇതിനായി നിങ്ങൾ ഒരു സ്വിച്ചിംഗ് ഫ്രീക്വൻസിയും കണക്കാക്കേണ്ടതുണ്ട് MOSFETS എത്ര വേഗത്തിൽ പോകുന്നു എന്നും നിങ്ങൾ 20 കിലോഹെർട്സ് 50 കിലോഹെർട്സ് അല്ലെങ്കിൽ 1000 കിലോഹെർട്സ് എന്നിവയിലേക്ക് മാറാൻ ശ്രമിക്കും തുടർന്ന് നിങ്ങൾ Bm ഉപയോഗിക്കുന്നു അത് ഫെറൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 2 ടെസ്ല മൂല്യത്തിൽ ആരംഭിക്കാം അതിനുശേഷം നിങ്ങൾ Np യ്ക്കുള്ള ചുറ്റുകൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ Vin 2 Np Ac Bm fs എന്നതിൽ നിന്നാണ് ഇത് വരുന്നത് കാരണം നിങ്ങൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് നമുക്ക് കോർ Ac അറിയാം Bm fs Vin എന്നിവ അറിയാം Np മാത്രം അറിയില്ല ഇത് പിന്നീട് കണക്കാക്കാം NsNp n ഉപയോഗിച്ച് Ns കണക്കാക്കുക n എന്നത് വീണ്ടും ഡിസൈൻ സ്പെക് ആണ് കാരണം ഇത് ndVin Vo യിൽ ഉപയോഗിക്കുക അതിനാൽ Vo എന്നത് ഒരു സ്പെക് Vin ആണ് ഒരു സ്പെക് Bm അപ്പോൾ ചിത്രത്തിൽ വരും അതിനാൽ അവർ ചെമ്പിന്റെ വയർ ഗേജുകളുടെ വലുപ്പങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം n ഒരു ഡിസൈൻ സ്പെക് ഡിസൈനർ സ്പെക് ആകാം rms മൂല്യം അറിഞ്ഞതിനു ശേഷം പ്രൈമറി വയർ ക്രോസ് സെക്ഷന്റെയും സെക്കൻഡറി വയർ ക്രോസ് സെക്ഷന്റെയും ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗുകൾടെയും ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം എന്നും വൈൻഡിംഗുകളിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരകൾ അറിയുകയും സ്റ്റാൻഡേർഡിൽ നിന്ന് വയർ ഗേജ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക വയർ ഗേജ് കേബിളും നിങ്ങൾ തിരഞ്ഞെടുത്ത വയറിനും ക്രോസ് സെക്ഷൻ ഏരിയ ശ്രദ്ധിക്കുക തുടർന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കുക Np x പ്രൈമറിയുടെ വയർ ക്രോസ് സെക്ഷൻ ഏരിയ Ns x സെക്കൻഡറിയുടെ വയർ ക്രോസ് സെക്ഷൻ ഏരിയ Nd x ഡീമാഗ്നെറ്റൈസിംഗിന്റെ വയർ ക്രോസ് സെക്ഷൻ ഏരിയ വിൻഡിംഗ് ഇതെല്ലാം ഒരുമിച്ച് വിൻഡോ ഏരിയയ്ക്കുള്ളിൽ ഉൾക്കൊള്ളണം മാത്രമല്ല ലഭ്യമായ വിൻഡോ ഏരിയയിൽ ഇതെല്ലാം Kw Aw നേക്കാൾ കുറവായിരിക്കണം ഏരിയ പ്രൊഡക്ടിൽ നിന്ന് കോർ തിരഞ്ഞെടുക്കുമ്പോൾ Aw മൂല്യം നിങ്ങൾക്കു ലഭിക്കും ഇത് ക്രോസ് ചെക്ക് ചെയ്യുക ട്രാൻസ്ഫോർമറിന്റെ രൂപകൽപ്പന അങ്ങനെ പൂർത്തിയായി നിങ്ങൾ ആ പ്രത്യേക ഗേജ് ബോബിൻ ഉപയോഗിച്ച് ഗേജിന്റെ വിവിധ സാമഗ്രികൾ കോർ തിരിവുകളുടെ എണ്ണം എന്നിവ കാണണം തുടർന്ന് അവയെ അടുക്കി വയ്ക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്ഫോർമർ ഫിസിക്കൽ ഡിസൈൻ ചെയ്യാൻ കഴിയും